നമസ്കാരം NPTEL കോഴ്സ് മെക്കോബയോളജിയുടെ ആമുഖത്തിന്റെ ഇന്നത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആക്റ്റിൻ ശൃംഖലകളുടെ ഫോഴ്സ് വെലോസിറ്റി ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഞാൻ ഒരു സെൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ന്യൂക്ലിയസ് ആണ് സെല്ലിന്റെ പോളറൈസേഷൻ മൈക്രോട്യൂബുൾ സൈറ്റോസ്ക്ലെട്ടൺ ആണ് സാധ്യമാക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് പലതരം ഘടനകളെ സൃഷ്ടിക്കുന്ന ആക്റ്റിൻ ഫിലമെന്റുകൾ ഉണ്ട് ഈ ഘടനകൾ നിങ്ങളുടെ ആക്റ്റിൻ സ്ട്രെസ് ഫൈബറുകൾ Actin stress fibresആണ് നിങ്ങൾ കാണുന്ന ഈ കൂർത്തതും നീളം ഉള്ളവയും ആയ ഘടനകളെ ഫിലോപോഡിയ എന്നും ശാഖകളുള്ള ഈ ശൃംഖലയെ അഥവാ ശൃംഖലയുടെ ഭാഗത്തെ ലാമെല്ലിപോഡിയ എന്നും വിളിക്കുന്നു വിവിധ പ്രോട്ടീനുകളാൽ ആക്റ്റിൻ ക്രോസ് ലിങ്ക് ചെയ്യുന്ന രീതി ലാമെല്ലിപോഡിയയുടെയും ഫിലോപോഡിയയുടെയും കാര്യത്തിൽ വ്യത്യസ്തമാണ് ലാമെല്ലിപോഡിയയിൽ ആക്റ്റിൻ കൂടുതൽ ശാഖകളുള്ള ശൃംഖലയാണ് എന്നാൽ ഫിലോപൊഡിയയിൽ ആക്റ്റിൻ കൂടുതലും കൂട്ടം ആയി കാണുന്നു അതിനാൽ സെൽ മൈഗ്രേഷനിൽ ആക്റ്റിൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇന്ന് നമ്മൾ ചർച്ചചെയ്യാൻ പോകുന്നത് സെല്ലുകളുടെ മൈഗ്രേഷനെ നയിക്കുന്നതിൽ ആക്റ്റിൻ എങ്ങനെ പങ്കുവഹിക്കുന്നു എന്നതാണ് അതിനായി ആദ്യം സെൽ മൈഗ്രേഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിവിധ ഘട്ടങ്ങൾ നോക്കാം ഞാൻ സെല്ലിന്റെ ഒരു വശത്തു നിന്നുള്ള ദൃശ്യം വരയ്ക്കാൻ താൽപ്പര്യപ്പെടുന്നെങ്കിൽ ഞാൻ പ്രതലം വയ്ക്കട്ടെ ഇതാണ് നിങ്ങളുടെ പ്രതലം നിങ്ങളുടെ സെൽ ഒന്നിലധികം അഡ്ഹീഷനുകൾ ഉപയോഗിച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ആദ്യത്തെ ഘട്ടത്തിൽ നിങ്ങൾക്ക് ആക്റ്റിൻ പ്രോട്രൂഷൻ ഉണ്ടാവും സെല്ലിന്റെ ലീഡിങ് എഡ്ജിൽ ഇതാണ് സെല്ലിൻറെ ലീഡിങ് എഡ്ജ് ആദ്യം സംഭവിക്കുന്നത് നിങ്ങളുടെ സെല്ലിന്റെ ദീർഘീകരണമാണ് ഇത് പ്രതലമായി തുടരുന്നു ഞാൻ മുഴുവൻ സെല്ലും വരയ്ക്കുന്നില്ല നിങ്ങൾക്ക് ആക്റ്റിൻ പ്രോട്രൂഷൻ ഉണ്ട് രണ്ടാമത്തെ ഘട്ടത്തിനായി എനിക്ക് മുഴുവൻ സെല്ലും വരയ്ക്കണം ഇത് വീണ്ടും ഒരു പ്രോട്രൂഷനാണ് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഇവിടെയെല്ലാം ഫോക്കൽ അഡ്ഹീഷനുകൾ ഉണ്ടായിരുന്നു ഇതിനൊപ്പം നിങ്ങൾക്ക് ഇവിടെ പുതിയ ഒരു അഡ്ഹീഷൻ രൂപവൽക്കരണം ഉണ്ടായി അതിനാൽ ആദ്യം നിങ്ങൾക്ക് പ്രോട്രൂഷൻ ഉണ്ടായിരുന്നു തുടർന്ന് നിങ്ങൾക്ക് അഡ്ഹീഷൻ ഉണ്ടായി അപ്പോൾ അഡ്ഹീഷൻ Adheshion എന്താണ് ചെയ്യുന്നത് അത് പ്രോട്രൂഷനെ സ്ഥിരീകരിക്കുന്ന്നു തുടർന്ന് 3 4 ഘട്ടങ്ങളിൽ സംഭവിക്കുന്നത് എന്തെന്നാൽ മൂന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് സെല്ലിന്റെ ട്രാൻസ് ലൊ ക്കേഷൻ ഉണ്ട് ഒടുവിൽ നാലാം ഘട്ടത്തിൽ നിങ്ങൾക്ക് ഡി അഡ്ഹീഷൻ ഉണ്ട് എന്താണ് ഡി അഡ്ഹീഷൻ ഞാൻ നിങ്ങൾക്കായി ഡി അഡ്ഹീഷനുകൾ വരയ്ക്കാം ഒരു സെൽ മുന്നോട്ട് നീങ്ങുന്നതിന്റെ ഫലമായി ഈ അഡ്ഹീഷൻ ട്രെയ്ലിങ് എഡ്ജിൽ നിന്നും വേർപെടുന്നു ഇതാണ് സെല്ലിന്റെ ട്രെയ്ലിങ് എഡ്ജ് അതിൻറെ ഫലമായി സെൽ മുന്നോട്ടു ചലിക്കുന്നു സെൽ മൈഗ്രേഷന് ആക്റ്റിൻ പോളിമറൈസേഷൻ എങ്ങനെ സംഭാവന ചെയ്യുന്നുവെന്ന് നമുക്ക് പഠിക്കാനാകുമോ എന്നതാണ് ഇന്നത്തെ ചോദ്യം നിങ്ങൾക്ക് ഭിത്തിക്ക് എതിരായി ഒരു ഫിലമെന്റ് ഉണ്ടെങ്കിൽ ചലിക്കുന്ന സെല്ലിന്റെ ഭിത്തി എന്താണ് ഭിത്തി എന്നാൽ മറ്റൊന്നുമല്ല സെൽ മെംബറേൻ തന്നെയാണ് സെൽ മെംബറേനിലെ ചില പിരിമുറുക്കങ്ങൾ കാരണം സമ്മർദ്ദങ്ങൾ മൂലം അഥവാ മെംബറേനിൻറെ സമ്മർദ്ദം ഫിലമെന്റുകൾ വിധേയമാകുന്ന ഫോഴ്സിനെ നിർണ്ണയിക്കുന്നു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിയിൽ ഡിഫ്രാക്ഷൻ ലിമിറ്റഡ് എന്ന ഈ പദം ഞാൻ അവതരിപ്പിച്ചു നമുക്കറിയാം ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിന് കീഴിൽ ഒരു മോണോമറിന് താഴെയുള്ളവ കാണുക അസാധ്യമാണ് 250 നാനോമീറ്ററിൽ താഴെയുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഞാൻ ഫിലമെന്റ് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഒരു ആക്റ്റിൻ ഫിലമെന്റ് വരച്ചതായി സങ്കൽപ്പിക്കുക ഇതൊരു ആക്റ്റിൻ ഫിലമെന്റ് ആണ് ഈ ദൂരം 250 നാനോമീറ്ററാണെന്ന് നമുക്ക് പറയാം ഈ ദിശയിലേക്ക് പോകുന്ന ഒരു മോണോമർ അല്ലെങ്കിൽ ഇവിടെ ചേർക്കുന്ന ഒരു മോണോമർ എന്നീ ഇവൻറുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല പക്ഷേ നിങ്ങൾ ഫിലമെന്റ് ലേബൽ ചെയ്യുകയാണെങ്കിൽ അതായത് മുഴുവൻ ഫിലമെന്റും ലേബൽ ചെയ്യുക ഈ സാഹചര്യത്തിൽ ഇത് മുഴുവൻ ചുവപ്പായി മാറും എന്നാൽ ഈ കേസിലും നിങ്ങൾക്ക് വ്യക്തിഗത മോണോമർ തലത്തിലുള്ള പോളിമറൈസേഷൻ അല്ലെങ്കിൽ ഡിപോളിമറൈസേഷൻ ഇവന്റുകൾ കാണാൻ കഴിയില്ല അതിനാൽ പ്രോട്ടീൻ ചലനാത്മക ദൃശ്യവൽക്കരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമീപനം എങ്ങനെ രൂപപ്പെടുത്താം നിങ്ങൾ ഇവ ദൃശ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിനായി വികസിപ്പിച്ച സമീപനങ്ങളിലൊന്നിനെ ഫ്ലൂറസെൻസ് സ്പെക്കിൾ മൈക്രോസ്കോപ്പി അല്ലെങ്കിൽ FSM എന്ന് വിളിക്കുന്നു ഈ സാങ്കേതികവിദ്യ എന്താണ് ചെയ്യുന്നത് ലളിതമായ ഒരു കേസിൽ നിങ്ങൾക്ക് ഒരു ഫിലമെന്റ് filamentഉണ്ടെന്ന് അനുമാനിക്കാം അല്ലെങ്കിൽ ഇത് പൂർണ്ണമായും ലേബൽ ചെയ്തിട്ടുള്ള ഒരു മൈക്രോട്യൂബുളാണെന്ന് പറയാം അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ചലനാത്മകത ട്രാക്കു ചെയ്യാനാകില്ല എന്നാൽ ലേബൽ ചെയ്യാത്ത ഫിലമെന്റുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഇനിപ്പറയുന്ന പരീക്ഷണം ചെയ്യുന്നുവെന്ന് പറയാം ഇത് ലേബൽ ചെയ്യാത്ത മൈക്രോട്യൂബുളാണ് ലേബൽ ചെയ്യാത്ത ഈ ഉപഘടകങ്ങളെല്ലാം നിങ്ങളുടെ പക്കലുണ്ട് കൂടാതെ ലേബൽ ചെയ്യാത്ത ഉപഘടകങ്ങളുടെ ഈ മിശ്രിതത്തിനുള്ളിൽ നിങ്ങൾ ലേബൽ ചെയ്ത ചില ഉപഘടകങ്ങൾ ചേർക്കുന്നു ഇത് ഒരു ചെറിയ ശതമാനമാണ് ലേബലിംഗിന്റെ ശതമാനം ഈ സാഹചര്യത്തിൽ 10 ശതമാനമാണെന്ന് നമുക്ക് പറയാം അപ്പോൾ നിങ്ങൾ എന്താണ് കാണുക ഏതാണ്ട് ലേബൽ ചെയ്ത ഈ സോണുകൾ പരസ്പരം ദൃശ്യമാകാത്ത ഈ കറുത്ത സോണുകൾക്ക് ഇടയിൽ സ്ഥിതിചെയ്യുന്നതായി നിങ്ങൾ കാണും പക്ഷേ ലേബലിംഗിന്റെ സാന്ദ്രത ഗണ്യമായി കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുക എന്തെന്നാൽ ഈ ലേബലിംഗ് ഓർഡർ ഒരു ശതമാനം ആണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ നിങ്ങൾ മുഴുവൻ ഘടനയും കാണുന്നില്ല പക്ഷേ ആ ഘടന എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും നിങ്ങൾക്ക് ഇപ്പോൾ ഈ നിരവധി ബിന്ദുക്കൾ കാണാൻ കഴിയും ബിന്ദുക്കൾ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ ബിന്ദുക്കളെ സ്പെക്കിൾസ് എന്ന് വിളിക്കുന്നു ഇവിടെ ഫ്ലൂറസന്റ് ലേബൽ ചെയ്ത ഉപഘടകങ്ങൾ ഒരുമിച്ച് കൂട്ടം ചേർന്ന് നിൽക്കുന്നു ഈ സ്പെക്കിളുകളെ ചിത്രീകരിക്കുന്നതിന് സംഘടനയുടെ ദൈർഘ്യം അതായത് ഈ സ്പെക്കിളുകളെ ചിത്രീകരിക്കുന്നതിന് നിങ്ങളുടെ ഉപഘടകങ്ങളുടെ സംഘടനയുടെ ദൈർഘ്യം ഒരു ഫ്രെയിം രേഖപ്പെടുത്തുന്നതിന് ആവശ്യമായ സമയത്തേക്കാൾ തുല്യമോ വലുതോ ആയിരിക്കണം ഈ ഫ്ലൂറസെന്റ് സ്പെക്കിൾ മൈക്രോസ്കോപ്പി ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനം എന്താണ് ഞാൻ ഈ പ്രത്യേക ഫിലമെന്റ് വരച്ചിട്ടുണ്ട് അത് ആക്റ്റിൻ ഫിലമെന്റ് അല്ലെങ്കിൽ മൈക്രോട്യൂബുൾ ഫിലമെന്റ് ആയിരിക്കാം ഞാൻ മനപ്പൂർവ്വം വിവിധ വലുപ്പത്തിലുള്ള ബിന്ദുക്കൾ വരച്ചിട്ടുണ്ട് കാരണം ഈ സംഘടന പൂർണ്ണമായും ക്രമരഹിതമായതിനാൽ ഈ ബിന്ദുക്കളുടെ സ്ഥാനവും വലുപ്പവും വ്യത്യാസപ്പെട്ടിരിക്കും നിങ്ങൾ ഒരിക്കൽ ഈ സ്പെക്കിൾ ജ്യാമിതി കണ്ടുകഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിർണ്ണയിക്കാൻ കഴിയുന്ന രണ്ട് വിവരങ്ങളുണ്ട് നിങ്ങൾക്ക് ഓരോ സ്പിക്കിളും ട്രാക്കു ചെയ്യാനാകും കൂടാതെ നിങ്ങൾക്ക് സ്പെക്കിൾ ചലനവും ട്രാക്ക് ചെയ്യാനാകും അതായത് നിങ്ങൾക്ക് സ്പെക്കിൾ ചലനവും ഒപ്പം സ്പെക്കിൾ വലുപ്പം ട്രാക്കു ചെയ്യാൻ കഴിയും പ്രാദേശികമായി ഈ പ്രത്യേക ബിന്ദുവിൻറെ വലുപ്പം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ചില പോളിമറൈസേഷൻ ഇവൻറ് സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം അതിനാൽ സ്പെക്കിൾ അളവുകളിലെ വർദ്ധന പോളിമറൈസേഷൻ ഇവന്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഒരർത്ഥത്തിൽ ബിന്ദുക്കളുടെ വലുപ്പം അവയുടെ മൊത്തം ടേൺഓവറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ നിറം നൽകിയിട്ടുള്ള ഒരു സെൽ എടുക്കുകയാണെങ്കിൽ ഇത് ഒരു സ്ട്രെസ് ഫൈബർ ശൃംഖലയാണെന്ന് സങ്കൽപ്പിക്കുക സെല്ലിൽ സ്ട്രെസ് ഫൈബർ കാണുന്ന ഭാഗമാണിത് അതേ സെൽ സ്പെക്കിൾ മൈക്രോസ്കോപ്പിയിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് കാണുക മുഴുവൻ ഘടനയും നിങ്ങൾ കാണില്ലെങ്കിലും സ്പെക്കിൾ മൈക്രോസ്കോപ്പിയിൽ നിന്ന് ഈ ഫിലമെന്റുകളുടെ ക്രമീകരണം നിങ്ങൾക്ക് കണക്കാക്കാനാകും ഇതിനു സമാനമായി നിങ്ങളുടെ സെല്ലിൽ ഇതുപോലെയുള്ള അഡ്ഹീഷനുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം സ്പെക്കിൾ മൈക്രോസ്കോപ്പിയിൽ നിങ്ങൾ കണ്ടെത്തിയത് എന്തെന്നാൽ ഈ അഡ്ഹീഷനുകൾ എവിടെയാണെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ലഭിക്കും അതുമാത്രമല്ല സ്പെക്കിൾ മൈക്രോസ്കോപ്പി ഉപയോഗിച്ച് സ്ഥാന വിവരങ്ങളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചലനാത്മക വിവരങ്ങളും ലഭ്യമാണ് അതിനാൽ മൈഗ്രേറ്റ് ചെയ്യുന്ന സെല്ലുകളിലെ ആക്റ്റിൻ ചലനാത്മകത ചിത്രീകരിക്കാൻ നിങ്ങൾ സ്പെക്കിൾ മൈക്രോസ്കോപ്പി ഉപയോഗിക്കുന്നുവെന്ന് നമുക്ക് പറയാം ഒരു മൈഗ്രേറ്റിംഗ് സെല്ലിലെ ആക്റ്റിൻ ചലനാത്മകതയുടെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെ നിങ്ങൾക്ക് ഒരു സെൽ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങളുടെ പക്കൽ ഈ മുഴുവൻ സെല്ലും ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഒരു കോണിലേക്ക് സൂം ചെയ്യാൻ കഴിയും അവയുടെ സ്പെക്കിൾ ദൃശ്യങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ടൺ കണക്കിന് ഇത്തരത്തിലുള്ള ബിന്ദുക്കൾ പോലെയുള്ള കണികകളോ അല്ലെങ്കിൽ സ്പെക്കിളുകളോ കാണാം അളവിനെ സംബന്ധിക്കുന്നതായ ഏതെങ്കിലും വിവരങ്ങൾ നേടുന്നതിന് അതായത് ഓരോ സ്പെക്കിളിന്റെയും സ്പേഷ്യൽ സ്ഥാനവും തീവ്രതയുടെ ഏറ്റക്കുറച്ചിലുകളും കണ്ടെത്തുന്നതിന് നിങ്ങൾ അൽഗോരിതം വികസിപ്പിക്കേണ്ടതുണ്ട് ഇത് നിസാര കാര്യമല്ല ഫ്ലൂറസെൻസ് സ്പെക്കിൾ മൈക്രോസ്കോപ്പി വികസിപ്പിക്കുന്നതിന് ഗണ്യമായ സംഭാവന നൽകിയ ഗണിതശാസ്ത്രജ്ഞനാണ് ഗോഡെർണ്സ് ഡാനൂസർ നിങ്ങൾ ഈ സ്പെക്കിൾ മൈക്രോസ്കോപ്പി ചെയ്താൽ സ്പെക്കിളുകളുടെ ചലനത്തിന്റെ സ്വഭാവം എന്താണ് എന്നതാണ് ചോദ്യം നിങ്ങൾ സെല്ലിന്റെ ഈ എഡ്ജിലേക്ക് നോക്കുകയാണെന്ന് പറയാം ഞാൻ ചെയ്യുക എന്തെന്നാൽ സ്പെക്കിളുകൾ പ്ലോട്ട് ചെയ്യുന്നതിന് പകരം ഞാൻ സ്പെക്കിളുകളുടെ മൊത്തത്തിലുള്ള ചലനം എന്താണെന്ന് പ്ലോട്ട് ചെയ്യും ഞാൻ ഈ എഡ്ജ് കുറച്ച് വലുതാക്കി വരയ്ക്കുകയാണ് ഞാൻ ഇവിടെ വരച്ചത് സ്പെക്കിളുകളുടെ ചലനത്തിന്റെ വിതരണമാണ് നിങ്ങൾ നോക്കുന്നത് ഒരു മൈഗ്രേറ്റിംഗ് സെല്ലിലെ സ്പെക്കിളുകളുടെ ചലനമാണ് ഇത് സെൽ ഈ സമയത്ത് നീങ്ങുന്ന ഏകദേശം ദിശയെ പ്രതിനിധീകരിക്കുന്നു നിങ്ങൾ കാണുന്നതെന്തെന്നാൽ സ്പെക്കിളുകളുടെ രണ്ട് സമൂഹങ്ങൾ ഉണ്ട് സ്പെക്കിൾ ചലനത്തിന്റേയോ അഥവാ പെരുമാറ്റത്തിന്റേയോ രണ്ട് സോണുകൾ ഉണ്ട് സ്പെക്കിളുകൾ വേഗത്തിൽ നീങ്ങുന്ന പുറം ഭാഗത്തുള്ള സോൺ ഉണ്ട് ഇത് സോൺ ഒന്ന് ആണ് സോൺ രണ്ടിൽ സ്പെക്കിളുകൾ സാവധാനത്തിൽ നീങ്ങുന്നു എന്നാൽ എല്ലാ സ്പെക്കിളുകളും അകത്തേക്ക് തന്നെയാണു നീങ്ങുന്നത് അതായത് സെൽ ഈ ദിശയിലൂടെ പുറത്തേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നു സെല്ലിലെ സ്പെക്കിളുകൾ അകത്തേക്ക് നീങ്ങുന്നു ഈ ചലനത്തെ അല്ലെങ്കിൽ ആന്തരിക പ്രവാഹത്തെ റിട്രോഗ്രേഡ് ആക്റ്റിൻ ഫ്ലോ എന്ന് വിളിക്കുന്നു അപ്പോൾ അകത്തേക്ക് ചലിക്കുന്ന എല്ലാ സ്പെക്കിളുകളിലും നിങ്ങൾക്ക് റിട്രോഗ്രേഡ് ആക്റ്റിൻ ഉണ്ട് അതിനാലാണ് ഇത് റിട്രോഗ്രേഡ് അഥവാ പിന്നോട്ട് ചലിക്കുന്നത് സെല്ലുകൾ നീങ്ങുന്ന ദിശയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് സെല്ലിന്റെ ചുറ്റളവിൽ വേഗത്തിൽ ചലിക്കുന്ന സ്പെക്കിളുകളുണ്ട് സ്പെക്കിളുകൾ വേഗത്തിൽ നീങ്ങുന്ന പ്രദേശത്തിന്റെ ഈ വീതി ഏകദേശം ഒന്നോ രണ്ടോ മൈക്രോൺ ആണ് അപ്പോൾ ചുറ്റളവിൽ ഒന്നോ രണ്ടോ മൈക്രോൺ വീതിയും തുടർന്ന് സെല്ലിന്റെ മധ്യഭാഗത്തായി സാവധാനം നീങ്ങുന്ന സ്പെക്കിളുകളുമുണ്ട് അവർ കണ്ടെത്തിയ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് റിട്രോഗ്രേഡ് ഫ്ലോയുടെ രണ്ട് മേഖലകളുണ്ട് കൂടാതെ സെല്ലിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം നീളത്തിന് അനുസരിച്ച് തീവ്രത വ്യതിയാനങ്ങൾ എങ്ങനെ മാറുന്നുവെന്ന് കണ്ടെത്തുന്നതിനായി തീവ്രതയിൽ ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ട്രാക്ക് ചെയ്യുക എന്നതാണ് ചുവപ്പുനിറം തീവ്രത വർദ്ധിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു മറ്റൊരു വിധത്തിൽ ഇത് പോളിമറൈസേഷൻ ഇവന്റിനെയും പച്ച ഒരു ഡി പോളിമറൈസേഷൻ ഇവന്റിനെയും സൂചിപ്പിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മുഴുവൻ സെല്ലിനെയും രണ്ട് സോണുകളായി വേർതിരിക്കാനാകും സ്പെക്കിളുകൾ വേഗതയേറിയ റിട്രോഗ്രേഡ് പ്രവാഹം കാണിക്കുന്ന സെല്ലിൻറെ ചുറ്റളവിനോട് ചേർന്നുള്ള സോണിന് പോളിമറൈസേഷൻ സൂചിപ്പിക്കുന്ന ഒരു പാളി ഉണ്ടായിരുന്നു അതിനടുത്തായി ഒരു ഡി പോളിമറൈസേഷൻ പാളിയും കൂടാതെ അകത്ത് മുകളിലായി നിങ്ങൾക്ക് ചുവപ്പ് പച്ച എന്നീ ബിന്ദുക്കളുടെ മിശ്രിതം ഉണ്ട് അതായത് പോളിമറൈസേഷൻ ഡി പോളിമറൈസേഷൻ എന്നിവ രണ്ടും അതിനാൽ രചയിതാക്കൾ ചെയ്തത് എന്തെന്നാൽ ഉയർന്ന പോളിമറൈസേഷൻ ഡി പോളിമറൈസേഷൻ ഫാസ്റ്റ് റിട്രോഗ്രേഡ് ഫ്ലോ എന്നിവയുടെ ഈ മേഖല ഈ മേഖലയയാണ് അവർ ലാമെല്ലിപോഡിയ എന്ന് വിളിക്കുന്നത് ഈ സോൺ ആന്തരിക മേഖലയെ ലാമെല്ല എന്ന് വിളിക്കുന്നു അപ്പോൾ എന്താണ് ലാമെല്ല ഇത് സാവധാനത്തിലുള്ള പ്രവാഹത്തിൻറെയും കൂടാതെ മിശ്രിത ടേൺഓവർ പാറ്റേണിന്റെയും ഒരു മേഖലയാണ് നിങ്ങൾക്ക് ശാരീരികമായി വ്യത്യസ്തമെന്ന് തോന്നുന്ന രണ്ട് സോണുകളുണ്ട് ഫാസ്റ്റ് റിട്രോഗ്രേഡ് ഫ്ലോ ഉയർന്ന ടേൺഓവർ എന്നിവയുള്ള സ്പെക്കിളുകൾ ഉള്ളതായ ലാമെല്ലിപോഡിയ രണ്ടാമത്തെ സോൺ സ്ലോ ഫ്ലോയുടെയും മിശ്രിത ടേൺഓവർ പാറ്റേണിന്റെയും മേഖലയാണ് ഇപ്പോൾ നിങ്ങൾക്ക് പരസ്പരം അടുത്തടുത്തായിട്ടുള്ള ഈ രണ്ട് സോണുകളുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു പക്ഷേ അവ ശാരീരികമായി വ്യത്യസ്തമായ മേഖലകളാണ് ചില പ്രധാന പ്രോട്ടീനുകളുടെ അതായത് ആക്റ്റിൻ അനുബന്ധ പ്രോട്ടീനുകളുടെ സ്പേഷ്യൽ പ്രാദേശികവത്കരണം എന്താണെന്ന് അവർ കണ്ടെത്താൻ ശ്രമിച്ചു അവർ കണ്ടെത്തിയത് എന്തെന്നാൽ ആക്റ്റിനിൽ ശാഖകൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട Arp 23 ലാമെല്ലിപോഡിയയിൽ ഉണ്ടെന്നാണ് ആക്റ്റിൻ ഡി പോളിമറൈസേഷൻ സംഭാവന ചെയ്യുന്ന ഒരു ക്യാപ്പിംഗ് പ്രോട്ടീൻ ആയ കോഫിലിൻ ഇതും ലാമെല്ലിപോഡിയയിൽ ഉണ്ട് ഇതിനു വിപരീതമായി ലാമെല്ലയിൽ ആദ്യം ആക്റ്റിൻ ഫൈബറുകളെActin വലിച്ചു പിടിക്കുന്നതായ മയോസിൻ II സമ്പുഷ്ടമായി ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ട്രോപോമിയോസിൻ ഇതും ലാമിനയിൽ ഉണ്ടായിരുന്നു ചുരുക്കത്തിൽ നിങ്ങളുടെ പക്കലുള്ളത് വ്യത്യസ്ത റിട്രോഗ്രേഡ് ഫ്ലോ വ്യക്തിഗത ടേൺഓവർ അതുപോലെതന്നെ വ്യക്തിഗത തന്മാത്രകൾ എന്നിവ കാണിക്കുന്ന രണ്ട് സോണുകളാണ് അതിനാൽ ഈ രണ്ട് സോണുകളിലും വ്യത്യസ്തമായ ചില ചലനാത്മകതകൾ ഉണ്ടായിരിക്കുമെന്ന് ഇത് നിർദ്ദേശിക്കുന്നു അതോടെ ഞാൻ ഇന്നത്തെ എൻറെ ലെക്ച്ചർ നിർത്തുന്നു അടുത്ത ദിവസം ഞാൻ ഇവിടെ നിന്നും തുടരും